ഇപ്പോൾ ഒരു ഗ്രാഫിലെ എല്ലാ ജോഡി വെർട്ടീസുകൾക്കിടയിലുള്ള പാതകളും ഏറ്റവും ചെറിയ പാതകളും കണ്ടെത്താൻ ശ്രമിക്കുന്ന ഓൾ ജോഡി ഹ്രസ്വ പാതകളുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം അതിനാൽ ഞങ്ങൾ വെയ്റ്റഡ് ഗ്രാഫുകളുമായി പ്രവർത്തിക്കുന്നുവെന്ന് ഓർക്കുക ഞങ്ങൾ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റുകൾ അനുവദിക്കുന്നു പക്ഷേ നെഗറ്റീവ് സൈക്കിളുകളല്ല കാരണം നെഗറ്റീവ് സൈക്കിളുകളിൽ ഞങ്ങളുടെ ഹ്രസ്വ പാത കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല നെഗറ്റീവ് വെയ്റ്റുകളുമായി ഇത് നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ബെൽമാൻ ഫോർഡ് അൽഗോരിതം ഡിജ്സ്ക്രയുടെ അൽഗോരിതം സാമാന്യവൽക്കരിക്കാനും ഭാരം കുറഞ്ഞ ഗ്രാഫുകളിൽ നെഗറ്റീവ് സോഴ്സ് ഇല്ലാതെ നെഗറ്റീവ് സൈക്കിളുകൾ ഇല്ലാതെ ഒറ്റ ഉറവിട ഹ്രസ്വ പാതകളെ കണക്കുകൂട്ടാനും ഞങ്ങളെ അനുവദിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് കൂടുതൽ സാമാന്യവൽക്കരിക്കാനും ഒരൊറ്റ ഉറവിടത്തിൽ നിന്നുള്ള ഏറ്റവും ചെറിയ പാതകളെ മാത്രമല്ല ഓരോ ജോഡി ലംബങ്ങൾക്കും ഇടയിലുള്ള ഏറ്റവും ചെറിയ പാത കണക്കാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു യാത്രാ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു എയർലൈൻ വെബ്സൈറ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ആരെങ്കിലും ഏറ്റവും കുറഞ്ഞ ചിലവ് അല്ലെങ്കിൽ ഏതെങ്കിലും ജോഡി വശങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ സമയ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തുടക്കം ഒരു ഉദാഹരണമാണെന്ന് ഞങ്ങൾ വിശദീകരിച്ചു അതിനാൽ നെഗറ്റീവ് വെയ്റ്റുകളുടെ സാന്നിധ്യത്തിൽ പോലും ഹ്രസ്വമായ പാത ഒരിക്കലും ലൂപ്പ് ചെയ്യില്ലെന്ന് നിങ്ങൾ ഹ്രസ്വമായ പാതകളെക്കുറിച്ച് ഇനിപ്പറയുന്ന നിരീക്ഷണം നടത്തി കാരണം പാതയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാതെ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ലൂപ്പ് നീക്കംചെയ്യാൻ കഴിയും അതിനാൽ ഒരു ഹ്രസ്വ പാത ഒരിക്കലും ഒരേ ശീർഷകം രണ്ടുതവണ സന്ദർശിക്കാറില്ല പരമാവധി n മൈനസ് 1 വരെ ദൈർഘ്യമുണ്ട് അതിനാൽ ബെൽമാൻ ഫോർഡിനായി ഞങ്ങൾ ഈ അൽഗോരിതം ഒരു തരത്തിൽ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കുമായി ഒരു ഇൻഡക്റ്റീവ് അൽഗോരിതം ഉപയോഗിക്കാം എന്ന് ഞങ്ങൾ കണ്ടെത്തും ജോഡികളുടെ ഹ്രസ്വ പാത അതിനാൽ ഹ്രസ്വമായ പാതകൾ എങ്ങനെ നിർമ്മിക്കാമെന്നതിന്റെ ഒരു ഇൻഡക്റ്റീവ് പരിഹാരം ഞങ്ങൾ കൊണ്ടുവരും അതിനാൽ അടിസ്ഥാനപരമായി നീളത്തിന്റെ അവ്യക്തത കണക്കിലെടുത്ത് ഞങ്ങൾ ഏറ്റവും ഹ്രസ്വമായ പാത നിർമ്മിക്കാൻ പോകുന്നു എന്നാൽ ഏറ്റവും വ്യക്തമായി ഞങ്ങൾ ഇതിനിടയിൽ അനുവദിച്ച വെർട്ടീസുകൾ അതിനാൽ ഏറ്റവും ലളിതമായ ഹ്രസ്വ പാത ഒരു ജോഡി വെർട്ടീസുകളിൽ സങ്കൽപ്പിക്കാൻ കഴിയും ഇത് ഒരൊറ്റ അരികാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരൊറ്റ അരികുണ്ട് ഇത് ഏറ്റവും ചെറിയ പാതയായിരിക്കും തുടർന്ന് നിങ്ങൾ നല്ല നിലയിലാണ് പക്ഷേ പൊതുവേ ഇത് ഏറ്റവും ഹ്രസ്വമായ പാതയായിരിക്കില്ല കാരണം അത്തരമൊരു എഡ്ജ് ഉണ്ടെങ്കിൽപ്പോലും ഒരു വഴി ഉണ്ടായിരിക്കാം നെഗറ്റീവ് കാരണം എഡ്ജ് വേ കാരണം നെഗറ്റീവ് എഡ്ജ് വഴികൾ പോലും i മുതൽ j വരെ നമ്മുടെ വഴിയിലേക്ക് എത്തുന്നു അരികുകളുടെ ദൈർഘ്യമേറിയ പാത പക്ഷേ മൊത്തത്തിലുള്ള കുറഞ്ഞ ചെലവിലേക്ക് പക്ഷെ നമുക്കറിയാവുന്നത് ഹ്രസ്വമായ പാതയുടെ സ്വഭാവം കാരണം i മുതൽ j വരെയുള്ള ഈ പാത ചില ഇന്റർമീഡിയറ്റ് ലംബങ്ങളിലൂടെ കടന്നുപോകുന്നു അവയെല്ലാം പരസ്പരം വ്യത്യസ്തമാണ് ഒരു ശീർഷകവും രണ്ടുതവണ സന്ദർശിക്കില്ല രണ്ടാമതായി ഈ വെർട്ടീസുകളൊന്നും i അല്ലെങ്കിൽ j അല്ല i ലേക്ക് തിരികെ വരുന്നതിനും j ലേക്ക് പോകുന്നതിനും അർത്ഥമില്ല അതിനാൽ ഈ പാതയിൽ എവിടെയും ഒരു റൂട്ടും ഇല്ല അതിനാൽ ഈ ഇൻഡക്റ്റീവ് കാര്യത്തിനായി ഞങ്ങൾ എന്തുചെയ്യും എന്നത് നിയന്ത്രിക്കുക i നും j നും ഇടയിൽ എന്ത് സംഭവിക്കാം അനുവദനീയമായ ലംബങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ക്രമേണ സെറ്റ് വർദ്ധിപ്പിക്കും ഞങ്ങൾ ഏതെങ്കിലും വെർട്ടീസുകൾ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഏകപക്ഷീയമായ ഹ്രസ്വ പാതകൾ ലഭിക്കും വെർട്ടീസുകൾ 1 മുതൽ n വരെ അക്കമിട്ടിട്ടുണ്ടെന്ന് ഓർക്കുക അതിനാൽ i മുതൽ j വരെയുള്ള ഏറ്റവും ചെറിയ പാതയുടെ ഭാരം ആയി W ന്റെ അളവ് w i കണക്കുകൂട്ടും അവിടെ i മുതൽ j വരെ പോകാൻ കഴിയുന്ന ലംബങ്ങളെ ഞങ്ങൾ നിയന്ത്രിക്കുന്നു 1 നും k നും ഇടയിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് വെർട്ടീസുകൾ ഉണ്ട് അതിനാൽ നമുക്ക് 1 മുതൽ കെ വരെ ഉണ്ടെന്നും നമുക്ക് കെ പ്ലസ് 1 മുതൽ എൻ വരെ ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അത് മുറിച്ചുമാറ്റി ഈ വെർട്ടീസുകൾ മാത്രമേ പാതയിൽ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ അവസാന പോയിന്റുകൾ സ്വയം ആയിരിക്കില്ല ആവശ്യമില്ല പക്ഷേ അവസാന പോയിന്റിൽ പുറത്താണ് അപ്പോൾ അത് ഇപ്പോഴും കഴിയും അതിനാൽ എനിക്ക് ഇവിടെ 1 ശീർഷകം ഉണ്ടായിരിക്കാം അതിനുശേഷം അതിന് സമാനമായ ഒരു പാത ഉണ്ടായിരിക്കാം ഇത് തിരികെ വരിക അതിനാൽ ഇന്റർമീഡിയറ്റ് എന്ന് മാത്രം പറയുന്നു വെർട്ടീസുകൾ അതിനാൽ ഞാൻ ആരംഭിച്ച് j ലേക്ക് പോകുമ്പോൾ ഈ സെറ്റ് 1 മുതൽ k വരെയുള്ള നുണകൾക്കിടയിൽ എന്ത് സംഭവിക്കും അതിനാൽ പ്രത്യേകിച്ചും k 0 ആണെങ്കിൽ ഞങ്ങളുടെ നമ്പറിംഗ് 1 മുതൽ n വരെയാണ് ഇത് ദൃശ്യമാകുന്ന ലംബങ്ങളിൽ 1 ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് പറയുന്നു അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് W 0 ഉണ്ടെങ്കിൽ 1 മുതൽ n വരെയുള്ള എല്ലാ ലംബങ്ങളും പാതകളിൽ ദൃശ്യമാകില്ലെന്ന് ഇത് പറയുന്നു അതിനാൽ നമുക്ക് അത്തരം 3 ഹ്രസ്വ പാതകൾ ചെയ്യാനുള്ള ഏക മാർഗം നേരിട്ടുള്ള അരികിലേക്കാണ് അതിനാൽ ഈ ഇൻഡക്റ്റീവ് നിർവചനത്തിന്റെ അടിസ്ഥാന കേസ് W 0 1 മുതൽ n വരെയുള്ള എല്ലാ ലംബങ്ങളെയും ഒഴിവാക്കുന്ന i നും j നും ഇടയിലുള്ള ഏറ്റവും ചെറിയ പാതകൾ i നും j നും ഇടയിലുള്ള ഫോം അരികുകളാണെന്ന് പറയുന്നു അതിനാൽ ഇത് ഒരു ഇൻഡക്റ്റീവ് നിർവചനമായതിനാൽ നമുക്ക് പറയാനുള്ളത് 1 മുതൽ k വരെ മൈനസ് 1 ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ പാതകൾ നമുക്കറിയാമെന്ന് കരുതുക പിന്നെ ഞാൻ എങ്ങനെ ഹ്രസ്വ പാതകളെ 1 മുതൽ k വരെ കുറയ്ക്കും അതിനാൽ 1 മുതൽ k വരെ മൈനസ് 1 വരെ ഉപയോഗിക്കുന്ന എല്ലാ പാതകളിലും നമുക്കറിയാം i മുതൽ j വരെയുള്ള ഏറ്റവും ചെറിയ പാത എന്താണ് ഞങ്ങൾ ഇപ്പോൾ എങ്ങനെ കണക്കുകൂട്ടും വെർട്ടെക്സ് k ഉം ഉപയോഗിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണക്കുകൂട്ടും എന്ത് i മുതൽ j വരെയുള്ള ഏറ്റവും ചെറിയ പാതയായിരിക്കുക അതിനാൽ രണ്ട് കേസുകളുണ്ട് ആദ്യ കേസ് ഇത് ഒരു അധിക വെർട്ടെക്സ് കേസ് ഉപയോഗപ്രദമല്ല ഏറ്റവും ചെറിയ പാത ഞാൻ k ഉൾപ്പെടുത്തിയാലും വെർട്ടെക്സ് k ഉപയോഗിക്കുന്നില്ല 1 മുതൽ k വരെ മൈനസ് 1 ഉപയോഗിച്ചാൽ മതി ഈ സാഹചര്യത്തിൽ ഏറ്റവും ഹ്രസ്വമായത് 1 മുതൽ k വരെയുള്ള W i മുതൽ j വരെയുള്ള ദൂരം k മുതൽ മൈനസ് 1 ഉപയോഗിക്കുന്ന i മുതൽ j വരെയുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിന് തുല്യമാണ് അതിനാൽ ij യുടെ W k എന്നത് W k മൈനസ് 1 i j ന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും മറുവശത്ത് k ഉപയോഗിക്കുന്നത് നമുക്ക് നിസ്സാരമല്ലാത്ത ചില മെച്ചപ്പെടുത്തലുകൾ നൽകുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ i മുതൽ j ലേക്ക് പോകുന്ന ചില പാതകളുണ്ട് അത് k സന്ദർശിക്കുന്ന വഴിയിലും അതിനാൽ അത് വഴിയിൽ k സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ i മുതൽ k വരെയുള്ള പാതയായും k ൽ നിന്ന് j ലേക്ക് ഒരു പാതയായും വിഭജിക്കാം പക്ഷേ ഈ ശീർഷകം k അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഏതെങ്കിലും ശീർഷകം ഉണ്ടെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഈ പാതയിൽ ഇത് ദൃശ്യമാകുന്നു ഇത് ഏറ്റവും ചെറിയ പാതയാണെങ്കിൽ ഒരുതവണ മാത്രമേ ദൃശ്യമാകൂ അതിനാൽ കട്ട് k ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ i നും k നും ഇടയിൽ k ഇല്ല k നും j നും ഇടയിൽ k ഇല്ല ഇതിനർത്ഥം എനിക്ക് ഇതിനകം 1 മുതൽ കെ മൈനസ് 1 വരെ കടന്നുപോകുന്ന ഒരു പാതയുണ്ട് കൂടാതെ എനിക്ക് കെ മുതൽ ജെ വരെ ഒരു പാതയുണ്ട് അത് ഇതിനകം 1 മുതൽ കെ മൈനസ് 1 വരെ പോകുന്നു ഞാൻ ഇവ രണ്ടും കൂട്ടിച്ചേർക്കുന്നു അതിനാൽ എനിക്ക് പാത തകർക്കാൻ കഴിയും അത് i മുതൽ k വരെയുള്ള പാതയും k മുതൽ j വരെയുള്ള പാതയുമാണ് ഇവയിൽ ഓരോന്നും 1 മുതൽ k വരെ മൈനസ് 1 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൂടാതെ ആ പാതയുടെ വില എന്താണ് നമുക്ക് അത് ഇൻഡക്റ്റീവ് ആയി അറിയാം 1 മുതൽ k വരെ മൈനസ് 1 ഇൻഡക്റ്റീവ് കെ മൈനസ് 1 ഉപയോഗിച്ച് i മുതൽ k വരെയുള്ള മികച്ച പാതയുടെ വില ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ മാട്രിക്സ് W k മൈനസ് 1 ൽ നിങ്ങൾക്ക് k മുതൽ j വരെ മികച്ച പാതയുണ്ട് അതിനാൽ ഞാൻ ഇവ രണ്ടും ചേർത്താൽ i അല്ലെങ്കിൽ k പോകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണിത് അതിനാൽ കേസുകൾ സംയോജിപ്പിച്ച് ഒന്നുകിൽ ഞങ്ങൾ ഏത് സാഹചര്യത്തിലും k ഉപയോഗിക്കില്ല ഞങ്ങൾ പഴയ മാട്രിക്സിന്റെ മൂല്യം എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ k ഉപയോഗിക്കുന്നുവെന്നും പഴയ മാട്രിക്സിൽ i അല്ലെങ്കിൽ k പോകുന്ന രണ്ട് എൻട്രികൾ ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ സംയോജിപ്പിക്കുന്നതെന്നും ഞങ്ങൾ പറയുന്നു ഇവയിൽ രണ്ടെണ്ണം ചെറുതാക്കുക അതിനാൽ ഈ ചെറുത് ഏതാണ് 1 മുതൽ k വരെ പോകുന്ന i മുതൽ j വരെയുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിന്റെ ശരിയായ മൂല്യം അതിനാൽ ഇത് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം എന്ന് വിളിക്കുന്ന ഒരു ഉടനടി അൽഗോരിതം നൽകുന്നു അതിനാൽ W 0 ഫംഗ്ഷനെ പ്രതിനിധീകരിക്കുന്ന മാട്രിക്സിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അതിനാൽ W 0 ന് കൃത്യമായി എഡ്ജ് ഭാരം ഉള്ള എൻട്രികളുണ്ട് അതിനാൽ i മുതൽ j വരെ ഒരു എഡ്ജ് ഉണ്ട് W 0 i മുതൽ j വരെ ആ ഭാരത്തിന്റെ നേരിട്ടുള്ള പാതയാണെന്ന് പറയുന്നു കാരണം W 0 ന് ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് പാതകളിലൂടെ കടന്നുപോകാൻ കഴിയില്ലെന്നും എഡ്ജ് ഇല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് വെർട്ടെക്സിലൂടെ പോകാൻ കഴിയാത്തതിനാൽ W 0 i j അനന്തമായിരിക്കണം ഇപ്പോൾ 1 മുതൽ n വരെയുള്ള k ന് ഞാൻ അടിസ്ഥാനപരമായി ഇത് n തവണ ആവർത്തിക്കുന്നു ആദ്യം 1 ഉപയോഗിക്കാൻ ഞാൻ അനുവദിക്കുന്നു അതിനാൽ ഞാൻ W 1 W 0 എന്നിവ കണക്കുകൂട്ടുക ഞാൻ അത് എങ്ങനെ ചെയ്യും നേരത്തെ ചേർക്കുന്നതിന് ഞാൻ അപ്ഡേറ്റ് ഉപയോഗിക്കുന്നു അത് നിങ്ങൾക്ക് ഇതിനകം ഉള്ളതിന്റെ ഏറ്റവും കുറഞ്ഞതും പുതിയതായി അവതരിപ്പിച്ച വെർട്ടെക്സിലൂടെ കടന്നുപോകാനുള്ള സാധ്യതയും എടുക്കും തുടർന്ന് ഞാൻ 1 2 എന്നിവ അനുവദിക്കും തുടർന്ന് ഞാൻ 1 2 3 എന്നിവ അനുവദിക്കും വ്യക്തമായും ഞാൻ 1 2 3 വരെ n വരെ അനുവദിക്കുകയാണെങ്കിൽ എല്ലാ ലംബങ്ങളും അതിനിടയിൽ ദൃശ്യമാകാൻ ഞാൻ അനുവദിക്കുകയാണെങ്കിൽ W n ന് ഇപ്പോൾ തടസ്സങ്ങളില്ലാത്ത ഏറ്റവും ചെറിയ പാതകളുണ്ടാകും അതിനാൽ ഞാൻ ഈ അപ്ഡേറ്റ് കൃത്യമായി n തവണ ചെയ്യേണ്ടതുണ്ട് അതിനാൽ n സമയത്തിന് ശേഷം പാതയിലെ ഏതെങ്കിലും വെർട്ടീസുകളുടെ ഏകപക്ഷീയമായ സംയോജനം ഉൾപ്പെടുന്ന ഏറ്റവും ഹ്രസ്വമായ പാത ഞാൻ പിടിച്ചെടുക്കുന്നു അതിനാൽ യഥാർത്ഥ കോഡ് വീണ്ടും ബെൽമാൻ ഫോർഡ് പോലെയാണ് നിങ്ങൾക്ക് ആദ്യം ഇനിഷ്യലൈസേഷൻ ഉണ്ട് അത് അനന്തതയിലേക്കുള്ള എല്ലാ വഴികളും സജ്ജമാക്കുന്നു തുടർന്ന് ഗ്രാഫുകളുള്ള അരികുകളിൽ നിസ്സാരമല്ലാത്ത ഭാരം അപ്ഡേറ്റുചെയ്യുന്നു അതിനാൽ i j യുടെ W 0 എന്ന ഫംഗ്ഷനെ ഒരു ത്രിമാന മാട്രിക്സ് ഉപയോഗിച്ച് ഞങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ i j എന്നിവ രണ്ട് ലംബങ്ങളെയും 0 0 ആവർത്തന സംഖ്യയെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ തുടക്കത്തിൽ i j യുടെ W 0 ഒന്നുകിൽ i j യുടെ ഭാരം ഒരു അരികുണ്ടെങ്കിലോ അത് അനന്തമാണെങ്കിലോ അതാണ് ഈ ആദ്യ രണ്ട് ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇത് n തവണ അവസാനിക്കുന്നു ഞങ്ങൾ ഈ ആവർത്തനം ചെയ്യുന്നു അതായത് ലെവൽ k ലെ എല്ലാ W i j കളും അപ്ഡേറ്റുചെയ്യുന്നത് W i j ലെ ലെവൽ k മൈനസ് 1 അല്ലെങ്കിൽ റൂട്ടിന്റെ ആകെത്തുകയാണ് അതിനാൽ ഇവിടെ വ്യക്തമായിരിക്കണം സമയം കാണുക 0833 അതിനാൽ ഇത് i n നാണ് i 1 മുതൽ n വരെ തുല്യമാണ് j 1 മുതൽ n വരെ തുല്യമാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ അപ്ഡേറ്റ് റൂൾ ഉണ്ട് ഞങ്ങൾ ഇത് അന്ധമായി n തവണ ചെയ്യുന്നു n എൻട്രി k ലെ മാട്രിക്സ് W ന് എല്ലാ ജോഡി വെർട്ടീസുകൾക്കും ശരിയായ ഹ്രസ്വ പാതകൾ ലഭിച്ചുവെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു അതിനാൽ 1 മുതൽ 2 മുതൽ 6 വരെ അതിനാൽ എനിക്ക് ഒരു പുതിയ എൻട്രി 12 3 മുതൽ 2 മുതൽ 6 വരെ ലഭിക്കുന്നു അതിനാൽ എനിക്ക് പുതിയ എൻട്രി 3 ഉം 7 മുതൽ 2 മുതൽ 6 വരെയും ലഭിക്കുന്നു എനിക്ക് മൈനസ് 4 പ്ലസ് 2 മൈനസ് 3 ലഭിക്കുന്നു ഇപ്പോൾ ഡബ്ല്യു 2 ൽ നിന്ന് അതുപോലെ ഞാൻ ഡബ്ല്യു 3 കണക്കുകൂട്ടും വീണ്ടും കണക്കുകൂട്ടുക ഡബ്ല്യു 3 പിന്നീട് ഇതിലേക്ക് വരും എനിക്ക് ഡബ്ല്യു 1 ആവശ്യമില്ല എനിക്ക് ഡബ്ല്യു 2 മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ എനിക്ക് ഇപ്പോൾ മുതൽ ഡബ്ല്യു 1 വഴി എറിയാൻ കഴിയും ഞാൻ ഡബ്ല്യു 2 നോക്കുകയാണ് ഇപ്പോൾ ഞാൻ 1 2 3 ഉപയോഗിക്കാൻ എന്നെ അനുവദിക്കുന്നു അതിനാൽ ഞാൻ ഗോ ത്രോ 3 ലെ കാര്യങ്ങൾക്കായി നോക്കും ഉദാഹരണത്തിന് ഇപ്പോൾ 3 എറിയുക എനിക്ക് 6 മുതൽ 4 വരെ പോകാം ഉദാഹരണത്തിന് ആ ഫോമിന്റെ എൻട്രികൾ എനിക്ക് ലഭിക്കും അതിനാൽ എനിക്ക് 6 മുതൽ 4 വരെ പുതിയ കാര്യങ്ങളുമായി പോകാം എനിക്ക് 6 മുതൽ 2 വരെ പോകാം അതിനാൽ ഇപ്പോൾ എനിക്ക് ഒരു പുതിയ വഴി 6 മുതൽ 2 വരെ പോകുന്നു അതും വേർപിരിയുന്നു രസകരമെന്നു പറയട്ടെ ഇപ്പോൾ 6 മുതൽ 6 വരെ ഞങ്ങളുടെ പാതയുണ്ട് കാരണം നേരത്തെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ 2 ഉം 3 ഉം എറിയാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു എനിക്ക് 6 മുതൽ 6 വരെ പോകാം ഞാൻ പോസിറ്റീവ് ഭാരം ഉള്ള ഈ ലൂപ്പ് കണ്ടെത്തി പോസിറ്റീവ് വെയ്റ്റ് വ്യൂവർ പ്രശ്നത്തിലായിരുന്നില്ലെങ്കിൽ കാരണം ഇതിന് കൃത്യമായി നിർവചിക്കപ്പെട്ട പരിഹാരവും മറ്റും ഇല്ല അതിനാൽ നിങ്ങൾക്ക് ഇത് തുടരാം ഞങ്ങൾ W വരെ അപ്ഡേറ്റ് ചെയ്യില്ല നിങ്ങൾ ഇപ്പോൾ എല്ലാ വഴികളിലൂടെയും W 8 വരെ ചെയ്താൽ 1 മുതൽ 8 വരെയുള്ള എല്ലാം ഒരു ഇന്റർമീഡിയറ്റ് കാര്യമായി അനുവദിച്ചതിനുശേഷം ഈ മാട്രിക്സ് ചെയ്യും ഏതൊരു i j നും ഇടയിലുള്ള എല്ലാ ജോഡി ഹ്രസ്വമായ പാതയും കണക്കാക്കുക അതിനാൽ ഈ അൽഗോരിതം സങ്കീർണ്ണത ഓർഡർ ക്യൂബാണെന്ന് കാണാൻ വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് n ആവർത്തനവും ഓരോ ആവർത്തനവും ഉള്ളതിനാൽ ഞങ്ങൾ n സ്ക്വയർ എൻട്രികളുള്ള മുഴുവൻ മാട്രിക്സും അപ്ഡേറ്റുചെയ്യുന്നു ഇത് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് വളരെയധികം ചെയ്യാനാകില്ല കാരണം ഇത് ഒരു സമീപസ്ഥ മാട്രിക്സ് ബേസ് അൽഗോരിതം ആണ് ഞങ്ങൾക്ക് പട്ടികയിലേക്ക് നീങ്ങാൻ കഴിയില്ല കുറഞ്ഞത് പരമാവധി കണക്കാക്കേണ്ടതില്ല അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് n ക്യൂബ് അൽഗോരിതം ആണ് ഇത് നിസ്സാരകാര്യമായ ബെൽമാൻ ഫോർഡ് പോലെ ഒരു തരം ശബ്ദമാണെന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ എല്ലാ ജോഡികളും കണക്കുകൂട്ടിയാൽ ഇത് ബെൽമാൻ ഫോർഡ് പരിഹാരമായി സാമാന്യവൽക്കരിക്കുന്നു കാരണം പ്രത്യേകിച്ചും ഒരു നിശ്ചിത എസിൽ നിന്നുള്ള ഏറ്റവും ചെറിയ പാത നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആൻഡ്രോയിഡ് വാർഷൽ മാട്രിക്സിലെ ആ പ്രത്യേക വരി നിങ്ങൾ നോക്കേണ്ടതുണ്ട് നിങ്ങൾ എസ് വരിയും എല്ലാ എൻട്രികളും നോക്കിയാൽ എസ് ൽ നിന്നുള്ള ഏറ്റവും ചെറിയ പാത പറയുന്നു എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ എസ് ബെൽമാൻ ഫോർഡിൽ നിന്ന് ബുദ്ധിമാനായ സമീപസ്ഥല പട്ടിക പ്രാതിനിധ്യം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂവെങ്കിൽ ഓർഡർ mn എടുക്കുമെന്ന് ഓർക്കുക പക്ഷേ ഇത് ഇവിടെയാണ് ഓർഡർ n ക്യൂബ് ആവശ്യമാണ് അതിനാൽ ഇതാണ് ബെൽമാൻ ഫോർഡ് സാമാന്യവൽക്കരിക്കുക നിങ്ങൾക്ക് ബെൽമാൻ ഫോർഡിൽ നിന്നും അതിലേറെ കാര്യങ്ങളിൽ നിന്നും വിളിക്കേണ്ട അതേ ഉത്തരം ലഭിക്കും പക്ഷേ നിങ്ങൾ എല്ലായ്പ്പോഴും n ക്യൂബ് സമയം ചെലവഴിക്കുന്നു നിങ്ങളുടെ ഗ്രാഫിൽ വളരെ കുറച്ച് അരികുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ബെൽമാൻ ഫോർഡ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഉറവിട ഹ്രസ്വമായ പാത മാത്രമേ ചെയ്യണമെങ്കിൽ നിങ്ങൾ സാധാരണയായി ആൻഡ്രോയിഡ് വാർഷലിലേക്ക് നേരിട്ട് പോകരുത് നിങ്ങൾ ബെൽമാൻ ഫോർഡ് തൽക്ഷണം ചെയ്യണം ബഹിരാകാശ സങ്കീർണ്ണതയെക്കുറിച്ച് അതിനാൽ ഞങ്ങൾ ഓരോ 0 W 0 W 1 തുടങ്ങിയവയെ പ്രതിനിധീകരിക്കാൻ പോകുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ നമുക്ക് അടിസ്ഥാനപരമായി n തവണ n തവണ n ഉണ്ട് കാരണം നമുക്ക് n തവണ n ആണ് യഥാർത്ഥ മാട്രിക്സ് നമുക്ക് ഈ മാട്രിക്സുകളിൽ n ഉണ്ട് കാരണം നമുക്ക് ലെവൽ 0 ലെവൽ 1 ലെവൽ കെ അല്ലെങ്കിൽ ലെവൽ n എന്നിവയുണ്ട് പക്ഷേ ഞങ്ങളുടെ വർക്ക് out ട്ട് ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ലെവൽ 1 കണക്കുകൂട്ടേണ്ടിവരുമ്പോൾ ഞങ്ങൾക്ക് ലെവൽ 0 മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ലെവൽ 0 എറിയാൻ കഴിയും എപ്പോൾ ഞങ്ങൾക്ക് ലെവൽ 2 കണക്കുകൂട്ടേണ്ടിവരുമ്പോൾ നിങ്ങൾക്ക് ലെവൽ 1 മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ചില അർത്ഥത്തിൽ നിങ്ങൾക്ക് 2 പകർപ്പുകൾ മാത്രമേ സൂക്ഷിക്കാനാകൂ പിന്നിലേക്കും മടക്കിലേക്കും മാറാൻ കഴിയും നിങ്ങൾ സീറോത്ത് ലെവൽ രണ്ടാം ലെവലായി എഴുതുന്നു നിങ്ങൾ ആദ്യ ലെവൽ മൂന്നാം ലെവലായി എഴുതുന്നു അതിനാൽ ഞങ്ങൾക്ക് 2 സ്ലൈസ് l മാത്രമേ ആവശ്യമുള്ളൂ ഒരു സമയത്ത് ഈ ത്രിമാന മാട്രിക്സിനെ വിളിക്കുക അതിനാൽ നിങ്ങൾക്ക് ഈ 2 കഷ്ണങ്ങൾക്കിടയിൽ ആന്ദോളനം തുടരാം 2 n ചതുരാകൃതിയിലുള്ള സ്ഥലം അതിനാൽ സ്ഥലത്തെക്കുറിച്ച് സാധാരണയായി വേവലാതിപ്പെടുന്നതായി ഞങ്ങൾക്കറിയാം പക്ഷേ ഈ പ്രത്യേക കാര്യത്തിൽ നിങ്ങൾക്ക് ശരിക്കും ക്യൂബ്ഡ് അറേ ആവശ്യമില്ലെന്ന ഒരു നിരീക്ഷണം ആ രണ്ട് സൂചികകൾക്കൊപ്പം നിങ്ങൾക്ക് 2 n സ്ക്വയർ അറേ അല്ലെങ്കിൽ ഒരു n സ്ക്വയർ അറേ ഉണ്ടായിരിക്കാം രണ്ടിനുമിടയിൽ ആന്ദോളനം തുടരുക അതേ പ്രഭാവം നേടുക കാരണം മറ്റ് പകർപ്പ് കണക്കുകൂട്ടാൻ നിങ്ങൾക്ക് ഒരു പകർപ്പ് മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ചരിത്രപരമായ ചില പരാമർശങ്ങളിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം അതിനാൽ ഈ അൽഗോരിത്തിന്റെ ഹൈബ്രിഡ് നാമമെന്ന നിലയിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഫ്ലോയ്ഡ് വാർഷാൾ യഥാർത്ഥത്തിൽ രണ്ട് വ്യത്യസ്ത അൽഗോരിതങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയ്ക്ക് സമാനമായ ഘടനയുണ്ട് അതിനാൽ വാർഷൽ നിർദ്ദേശിക്കുന്ന യഥാർത്ഥ അൽഗോരിതം ട്രാൻസിറ്റീവ് ക്ലോസർ എന്ന് വിളിക്കുന്നു അതിനാൽ എഡ്ജ് റിലേഷനിൽ നിന്നുള്ള പാത്ത് കണക്കുകൂട്ടുന്നതിനു തുല്യമാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ അതിനാൽ നിങ്ങൾക്ക് സുഹൃത്തിനെപ്പോലെ ഒരു ബന്ധമുണ്ടെന്ന് കരുതുക അതിനാൽ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിങ്ങൾക്കറിയാം ആരാണ് അവരുടെ നേരിട്ടുള്ള സുഹൃത്ത് അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചേക്കാം ആർക്കാണ് പരോക്ഷമായി അറിയാം അതിനാൽ എനിക്ക് ആരെയെങ്കിലും പരോക്ഷമായി അറിയാം എനിക്ക് ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ആർക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനെ പോലെ ആ വ്യക്തിയെ അറിയാം അതിനാൽ പരോക്ഷമായി ആരെയെങ്കിലും അറിയുക എന്നത് ചങ്ങാതിയുടെ ബന്ധത്തെ അടച്ചുപൂട്ടുന്നതാണ് പൊതുവായി അതേ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഓരോ ഗ്രാഫിലും നിങ്ങൾ സുഹൃത്തിനെ ഉൾപ്പെടുത്തിയാൽ ഏത് ബന്ധമാണ് ഞങ്ങൾക്ക് എഡ്ജ് റിലേഷൻഷിപ്പായി വേണം ട്രാൻസിറ്റീവ് ക്ലോസറാണ് പാത്ത് റിലേഷൻ അതിനാൽ നിങ്ങൾക്ക് അരികുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സമീപസ്ഥ മാട്രിക്സ് ഉണ്ട് പാതകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാത്ത് മാട്രിക്സ് കണക്കുകൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവ പാതകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലംബങ്ങളുടെ ജോഡികളാണ് അതിനാൽ സമാനമായ അൽഗോരിതം വാർഷൽ വിവരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ എഴുതിയത് എ യിൽ നിന്നും ഈ കമ്പ്യൂട്ട് പി ചെയ്യുന്നതിന് അടുത്ത രണ്ട് സ്ലൈഡുകളിൽ ഞങ്ങൾ ഇത് വിശദമായി ചെയ്യും കൂടാതെ ആൻഡ്രോയിഡ് നിരീക്ഷിച്ചതും നിങ്ങൾക്ക് അതേ അൽഗോരിതം സ്വാംശീകരിക്കാൻ കഴിയും അതിനാൽ വാർഷലിന്റെ അൽഗോരിതം ആണെങ്കിൽ ഞങ്ങൾ പരിശോധിക്കുന്നത് പാത്ത് മാത്രമാണെന്നും ഫ്ലോയ്ഡ്സ് അൽഗോരിതം പറയുന്നു നിങ്ങൾക്ക് ഇത് ഹ്രസ്വമായ പാതകൾ കണക്കുകൂട്ടാൻ കഴിയും അതിനാൽ ഈ ആശയം നിങ്ങൾ കണ്ടതിനോട് വളരെ സാമ്യമുള്ളതാണ് കാരണം ഞങ്ങളെ വേഗത്തിൽ കടന്നുപോകാൻ അനുവദിക്കുക അതിനാൽ നമുക്ക് ഒരു സമീപസ്ഥ മാട്രിക്സ് എ ഉണ്ട് അത് അരികുകൾ A i j 1 ആണെന്ന് പറയുന്നു ഒരു അരികുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്ത് മാട്രിക്സ് വേണമെങ്കിൽ P i j 1 ആണ് i മുതൽ j വരെ ഒരു പാതയുണ്ട് അതിനാൽ ഞങ്ങൾ വീണ്ടും ഈ അളവ് P k i j വീണ്ടും കണക്കുകൂട്ടും അത് പാതയുണ്ടെന്നും ഈ പാത 1 മുതൽ k വരെയുള്ള ലംബങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നും പറയുന്നു അതിനാൽ k പ്ലസ് 1 മുതൽ n വരെ പാതയിൽ ദൃശ്യമാകാൻ കഴിയില്ല വീണ്ടും n പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഞാൻ j എന്നത് ഏകപക്ഷീയമാണ് ഈ സൂപ്പർ സെലിബ്രിറ്റി നിയന്ത്രിച്ചിരിക്കുന്ന i നും j നും ഇടയിലുള്ളത് ഇതാണ് അതിനാൽ i നും j നും ഇടയിൽ നിങ്ങൾക്ക് 1 മുതൽ k വരെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ അതിനാൽ മുമ്പത്തെപ്പോലെ നിങ്ങൾ P 0 ചെയ്താൽ ഒന്നും ദൃശ്യമാകില്ലെന്ന് ഇത് പറയുന്നു കാരണം നിങ്ങൾക്ക് 1 മുതൽ n വരെ എല്ലാം ഉണ്ടായിരിക്കാം അതിനാൽ P 0 എന്നത് സമീപസ്ഥല മാട്രിക്സ് മാത്രമാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് സമാനമായ ഒരു അപ്ഡേറ്റ് റൂൾ ഉണ്ട് അതിനാൽ 1 മുതൽ k വരെ മൈനസ് 1 ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന പാതകളെക്കുറിച്ച് എനിക്കറിയാമെങ്കിൽ 1 മുതൽ k വരെ ഉപയോഗിച്ച് എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന പാതകൾ എന്തൊക്കെയാണ് അതിനാൽ കെ ഉപയോഗിക്കാതെ തന്നെ ഇതിനകം ഒരു പാത്ത് ഉണ്ടെങ്കിൽ എനിക്ക് ആ പാത നിലനിർത്താൻ കഴിയും അതിനാൽ നമുക്ക് ഒന്നുകിൽ ആ പി കെ ഉണ്ടായിരിക്കാം ഞാൻ ഇപ്പോൾ ഓർക്കണം ഇത് ഒരു പാതയല്ല പാതയല്ല അതിനാൽ ഇത് ഒരു സമീപസ്ഥ മാട്രിക്സ് പോലെയാണ് ഭാരം ഇല്ല അത് 0 1 മാട്രിക്സ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ തെറ്റായ മാട്രിക്സ് ആയിരുന്നു അതിനാൽ തുടക്കത്തിൽ സമീപത്തുള്ള മാട്രിക്സ് 1 അല്ലെങ്കിൽ ശരി ഒരു എഡ്ജ് ഉള്ളപ്പോഴെല്ലാം എഡ്ജ് ഇല്ലാത്തപ്പോഴെല്ലാം തെറ്റാണ് അതിനാൽ കെ മൈനസ് 1 ഉപയോഗിച്ച് എനിക്ക് ഇതിനകം ഒരു എൻട്രി ശരിയാണെങ്കിൽ എനിക്ക് അത് സൂക്ഷിക്കാൻ കഴിയും മറുവശത്ത് ഒരുപക്ഷേ എനിക്ക് ഒരു എൻട്രി ശരിയായിരിക്കില്ല k തിരികെ പോയതിനുശേഷം പക്ഷേ ഒരു സെക്കൻഡ് ആവശ്യമുള്ളത് i മുതൽ k ലേക്ക് ഒരു പാതയുണ്ട് k ൽ നിന്ന് j ലേക്ക് ഒരു പാതയുണ്ട് ഇവിടെ ഞാൻ k മൈനസ് 1 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം k ഒരു തവണ മാത്രമേ ദൃശ്യമാകൂ ഒരു ഹ്രസ്വ പാതയിലെന്നപോലെ ഞാൻ കുറച്ച് കണക്റ്റിവിറ്റിക്കായി തിരയുകയാണെങ്കിൽ k ൽ നിന്ന് k ലേക്ക് തിരിച്ചുപോകുന്നതിലൂടെ ഞാൻ ഒന്നും നേടുന്നില്ല കാരണം ഞാനും j ഉം തമ്മിൽ ബന്ധം നിലനിർത്തും അതിനാൽ ഓരോ ശീർഷകത്തിന്റെയും ഒരു പകർപ്പ് ഉള്ള പാതകൾക്കായി ഞാൻ നോക്കേണ്ടതുണ്ട് അതിനാൽ i മുതൽ k വരെ ഒരു പാതയുണ്ടെന്ന് എനിക്ക് can ഹിക്കാം അത് പുറത്തുനിന്നുള്ള ഒന്നും ഉപയോഗിക്കാത്തതിനാൽ k മൈനസ് 1 അതുപോലെ k മുതൽ j വരെ അതിനാൽ ഇവിടെ ഇപ്പോൾ മിനി പ്ലസ് പ്രവർത്തനങ്ങൾക്ക് പകരം ഇപ്പോൾ ആകുക അല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് വേണം i മുതൽ k വരെയുള്ള പാതയിലേക്കും k ൽ നിന്ന് j ലേക്ക് പാതയിലേക്കും അല്ലെങ്കിൽ i മുതൽ j ലേക്ക് നിലവിലുള്ള പാതയിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒരിക്കലും k ഉപയോഗിക്കില്ല അതിനാൽ നിലവിലുള്ള ഈ രണ്ട് പാതകളും സംയോജിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനവും പ്രവർത്തനവും എനിക്കുണ്ട് പിന്നെ എനിക്ക് ഒരു കേസ് 1 സംയോജിപ്പിക്കുന്ന NOR ഓപ്പറേഷൻ ഉണ്ട് അതിനാൽ മുമ്പ് ഞങ്ങൾക്ക് W k മൈനസ് 1 ij ഉണ്ടായിരുന്നു തുടർന്ന് ഞങ്ങൾ ഈ W k മൈനസ് 1 ചേർക്കുന്നു ik plus W k മൈനസ് 1 kj ഞങ്ങൾ ഇത് എടുത്തു അതിനാൽ ഇവിടെ ഈ പ്ലസിനുപകരം ഞങ്ങൾ AND ഉപയോഗിക്കുന്നു കൂടാതെ മിനിറ്റ് ഉപയോഗിക്കുന്നതിനുപകരം ഞങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അൽഗോരിതം സമാനമല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് വളരെ സമാനമാണ് അതിനാൽ ഇത് വാർഷൽ നിർദ്ദേശിച്ച അൽഗോരിതം ആയിരുന്നു അതിനാൽ നിങ്ങൾ എല്ലാം തെറ്റായി സമാരംഭിക്കുന്നു എന്നിട്ട് വീണ്ടും നിങ്ങൾ P ന് i 1 മുതൽ n വരെ തുല്യമാണ് j ന് 1 മുതൽ n വരെ തുല്യമാണ് അതിനാൽ നിങ്ങൾ എല്ലാ പാതകളും തെറ്റായി സമാരംഭിക്കുന്നു നിങ്ങൾ വ്യക്തമായി സജ്ജമാക്കുമ്പോൾ അത് ഒരു സീറോത്ത് ലെവൽ പാതയാണ് എന്നിട്ട് നിങ്ങൾ ഇതിനകം കെ മൈനസ് 1 ലെവൽ പാത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ 2 കെ മൈനസ് 1 ലെവൽ പാതകൾ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് കെയിലെ ഇന്റർമീഡിയറ്റ് ലെവൽ കെ ആണെന്ന് എനിക്ക് കണ്ടെത്താം അതിനാൽ ഇത് വളരെ സമാനമായ കാര്യമാണ് മിനിറ്റിന്റെയും പ്ലസിന്റെയും പകരമായി OR അല്ലെങ്കിൽ AND ന്റെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മാത്രമേയുള്ളൂ ഉപയോഗയോഗ്യമായ അടയ്ക്കലിനുള്ള വാർഷലിന്റെ അൽഗോരിതം ആൻഡ്രോയിഡ് ഇത് ഹ്രസ്വമായ പാതകളായി സാമാന്യവൽക്കരിക്കുകയും നെഗറ്റീവ് അരികുകളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് പ്രശ്നമല്ല ആൻഡ്രോയിഡ് അൽഗോരിതം അരികുകളെ പരിഗണിക്കുന്നില്ല നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് അതിനാൽ നെഗറ്റീവ് സൈക്കിളുകൾ ഇല്ലാത്തിടത്തോളം